ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 24 ലാണ് ഈ പ്രത്യേക വസ്തുവിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ നമുക്ക് നോക്കാം ഈ വസ്തുവിന് ഈ സിലിണ്ടർ കൂടി ഉണ്ട് ഇവിടെ അത് ഒരു ദ്വാരം മുഴുവനായി താഴെ വരെ ഉള്ള രീതിയിലാണ് ഇവിടെയും താഴേയ്ക്ക് വരെ കടന്നുപോകുന്ന ഒരു ദ്വാരമുണ്ട് ഇവിടെയും അതെ പോലെയുള്ള ഒരു ദ്വാരമുണ്ട് അതായതു അത് താഴെ വരെ കടന്നുപോകുന്നു അതിനാൽ ഈ പച്ച വർണ്ണരേഖകൾ കാണിക്കുന്നിടത്ത് മാത്രമേ മെറ്റീരിയൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് 152 യൂണിറ്റുകളാണ് ഉയരം 45 യൂണിറ്റും ഈ വീതി 64 യൂണിറ്റും ആണ് ഡ്രോയിംഗ് ഷീറ്റിൽ നമ്മൾ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തു ഇതാണ് ഈ വ്യൂസ് നിർമ്മിക്കാൻ നമുക്ക് ഗ്ലാസ് ബോക്സ് രീതി ഉപയോഗിക്കാം ഒന്നാമതായി വസ്തുവിന്റെ എത്ര വ്യൂസ് ആവശ്യമുണ്ടോയെന്നത് നാം പരിശോധിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചിത്രം കാണിക്കാൻ പോകുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ ഒരു ഡ്രോയിംഗ് ഷീറ്റിൽ തീരുമാനിച്ച വ്യൂസിന്റെ നമുക്ക് ലഭിക്കും അതിനാൽ ആ വ്യൂ തരത്തിലുള്ള ദിശയാണ് കൂടാതെ നമ്മൾ 45 എന്ന അളവും കാണാനാകുന്ന അവസ്ഥയിലായിരിക്കും അതിനാൽ ഈ വസ്തു മുഴുവനായും 152 എന്ന ഈ അളവിനും 45 എന്ന ഈ അളവിനും ഇടയിലായിരിക്കും ഇനി നമുക്ക് ഗ്ലാസ് ബോക്സിന്റെ ടോപ് വ്യൂവിലേക്കു പോകാം അതിൽ നമുക്ക് 65 മില്ലീമീറ്റർ 64 മില്ലീമീറ്റർ പോലുള്ള ഒന്ന് കാണാനാകും മാത്രമല്ല 152 മില്ലീമീറ്റർ കാണാനും നമ്മൾക്കാകും അതിനാൽ 152 മില്ലീമീറ്റർ വീണ്ടും കാണാനാകും അതിനാൽ ഫ്രണ്ട് വ്യൂ വരെയുള്ള ദൂരം കുറഞ്ഞത് 25 മുതൽ 4 മില്ലീമീറ്റർ വരെ ആയിരിക്കണമെന്നാണ് ശുപാർശ ചെയ്യുന്നത് അല്ലാത്ത രീതിയിൽ ഒരിക്കലും ലേഔട്ട് സൃഷ്ടിക്കരുത് കുറഞ്ഞത് കുറച്ച് വിടവ് എങ്കിലും ഉണ്ടായിരിക്കണം 1 ആനുപാതികം 1 എന്ന മാനദണ്ഡം വലുപ്പം എന്തുതന്നെയായാലും അതേ അളവുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക വസ്തു വളരെ വലുതും ഡ്രോയിംഗ് ഷീറ്റ് ചെറുതുമാണെങ്കിൽ ഉദാഹരണമായി ഒരു ഡ്രോയിംഗ് ഷീറ്റിൽ ഒരു വലിയ കെട്ടിടത്തെ പ്രതിനിധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്തരം വലിയ കെട്ടിടത്തെ ഡ്രോയിംഗ് ഷീറ്റുകളിൽ നിർമ്മിക്കാൻ കഴിയുന്നതല്ല അതിനാൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം നമ്മളുടെ A0 ഷീറ്റ് A1 ഷീറ്റ് A3 ഷീറ്റ് A4 ഷീറ്റ് ഇത്തരത്തിലുള്ള ഷീറ്റുകൾ ഒരു വലിയ കെട്ടിടത്തെ പ്രതിനിധീകരിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്വാഭാവികമായും നമുക്കത് വലുപ്പം കുറക്കേണ്ടതായി വരും ഒരുപക്ഷേ 1 അനുപാതം 2 തരം സ്കെയിൽ ഇത്തരം സ്കെയിലുകളിൽ നമ്മൾ പ്രതിനിധീകരിക്കുകയും ഡ്രോയിംഗ് ഷീറ്റിൽ വ്യക്തമായി പരാമർശിക്കുകയും ചെയ്യും ഈ ലേഔട്ട് എഴുതുക ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് നോക്കാം ഡ്രോയിംഗ് ഷീറ്റിൽ മിനിമം വിടവ് പരിപാലിച്ച് ഫ്രണ്ട് വ്യൂ മുഴുവനായും ഒരൊറ്റ രേഖയായി പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു അതിനാൽ ആ ഒരു രേഖ അവിടെ ഉണ്ടാകും ഇനി മുകളിലുള്ള ഈ ഒന്ന് ഈ വക്രം ലൈനിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിക്കാം ഇത് നമ്മൾ ഇവിടെ കാണാൻ ശ്രമിക്കുന്നത് വിളക്കിച്ചേർത്തത് നിന്നും വരുന്നു ഈ വക്രം മാറുന്നു ഈ വരികൾ ഈ വരികളുമായി ഒത്തുപോകും അതിന് നമുക്ക് ഒരു കാരണമുണ്ട് വീണ്ടും സിലിണ്ടറിന്റെ ഉണ്ടായിരിക്കും അതിനാൽ അതിലൂടെ കടന്നു പോകുന്ന ഒരു ഡാഷ് ഡോട്ട് കാണിക്കാം അതുപോലെ ഇവിടെ നമുക്ക് മുഴുവനായും സ്കൂപ്ഡ് ഔട്ട് ഉപയോഗിച്ച് നമ്മൾ അത് കാണിക്കുന്നു എവിടെയെല്ലാം മധ്യ ബിന്ദുവും മുകളിലെ ഭാഗം ഇത് പോലെ കാണപ്പെടുന്നു അത് ഇതാണ് അതിനുള്ളിൽ ഒരു അർദ്ധവൃത്ത അതിലൂടെ കടന്നുപോകുന്നു അതിനാൽ ഇത് നമ്മൾ ഒരു ഡാഷ് ഡോട്ട് പ്രതിനിധീകരിക്കുന്ന രീതി അതിനാൽ ഇവിടെ ആ വലിയ ഡാഷ് നിർമ്മിക്കുന്ന രീതിയാണിത് ഇത് ചെയ്തുകഴിഞ്ഞതിനു ശേഷം പരമാവധി അളവുകൾ നമുക്ക് എവിടെ അനുഭവപ്പെടുന്നോ അത് നമ്മൾ ആ വസ്തുവിൽ എല്ലായ്പ്പോഴും ഈ ദിശയിലായിരിക്കണമെന്ന് നിര്ബന്ധമില്ല ഫ്രണ്ട് വ്യൂ താഴെ വരുന്നു അതിനാൽ ഇതിനെ ബോട്ടം വ്യൂ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ആ കാഴ്ച ഈ തലത്തിൽ വരുന്നു ഈ പ്രൊജക്ഷനുകൾക്കായി ആ വസ്തുവിന്റെ യഥാർത്ഥ വലുപ്പത്തെ പ്രതിനിധീകരിക്കുകയും വസ്തുവിന്റെ യഥാർത്ഥ രൂപം കാണിക്കുകയും ചെയ്യേണ്ടതാണ് അത് കഴിയുന്നത്ര അങ്ങനെ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ രണ്ട് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ കാണിക്കുന്നു ഒരെണ്ണം ആയാലും കുഴപ്പമില്ല എന്നിരുന്നാലും നല്ലത് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇവിടെ ഒരു ബെയറിംഗ് പോലെയുള്ള ഒരു വസ്തു ഉണ്ട് ഏതെല്ലാം വ്യൂസ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് ഈ ബെയറിംഗ് തുടക്കത്തിൽ ആ ദിശയിലേക്ക് തിരിഞ്ഞിട്ടായിരിക്കാം ഉള്ളത് ഗ്ലാസ് ബോക്സ് നിർമ്മിക്കുന്നത് അൽപ്പം ബുദ്ധിമുട്ടാണ് അതിനാൽ ഒരു നല്ല ആശയമല്ല അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അതിനുപകരം നമുക്ക് എന്തുചെയ്യാൻ കഴിയുമായിരുന്നു ഈ വസ്തുവിനെ ഒരു പ്രത്യേക വസ്തുവാക്കി മാറ്റുക അതിനാൽ സ്വാഭാവിക പ്രൊജക്ഷൻ സ്ഥാനം തിരഞ്ഞെടുക്കുക ഒരുപക്ഷേ ഗ്ലാസ് ബോക്സ് രീതിയുമായി യോജിക്കുന്ന രീതിയിൽ അതിനെ ചെറുതായി തിരിക്കുക ഇതാണ് പ്രാരംഭ രൂപരേഖ അത് നമുക്ക് പരമാവധി വ്യൂസ് കാണാനാവുന്ന രീതിയിലേക്ക് തിരിക്കുക കൂടാതെ ആ രീതിയിൽ നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ വ്യൂസ് നിർമ്മിക്കാനും അത് എളുപ്പമായിരിക്കും അതിനാൽ ഈ രീതി നല്ലതാണ് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ തിരഞ്ഞെടുത്ത ഫ്രന്റ് വ്യൂവിന്റെ ഇവയാണ് നമുക്ക് ഈ ടിപ്സ് എല്ലാം നമ്മൾ കാർ എങ്ങനെ സൂക്ഷിക്കാൻ പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് നമ്മുടെ കാർ ഇത്തരത്തിലുള്ള ആകൃതിയാണെന്ന് നമുക്ക് പരിഗണിക്കാം ഞാൻ ഇതിനെ ഫ്രന്റ് വ്യൂ ആയി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് ഈ കാറിന് അത്ര ഉചിതമല്ല ഉദാഹരണത്തിന് ഞാൻ ഇതിനെ ഒരു ഫ്രന്റ് വ്യൂ നമ്മൾ ആ രീതിയിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നല്ല ആശയമല്ല അതിനുപകരം അതെ കാറിനായി നമുക്ക് എന്തുചെയ്യാൻ കഴിയുമായിരുന്നു സ്ഥാപിച്ചിരിക്കുന്ന കാറിന്റെ ഫ്രന്റ് വ്യൂ ലഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ കാർ ആ ദിശയിൽ സ്ഥാപിക്കുമായിരുന്നു അതിനാൽ കാർ ആ തരത്തിൽ വെക്കാം അതിനാൽ നമ്മൾ ടോപ് വ്യൂ ആണ് മുകളിലെ ഭാഗം വീണ്ടും ഇതുമായി യോജിക്കുന്നു അതിനാൽ കാറിന്റെ ഈ രേഖ ഇതുമായി യോജിക്കുന്നു കാറിന്റെ മുകൾ ഭാഗം അവിടെ പോകുന്നു അത് അവിടെ അവസാനിക്കുന്നു വീണ്ടും ഈ ഭാഗം അവിടെ ഒരു ചെരിവുമായി പൊരുത്തപ്പെടുന്നു ഈ ചക്രങ്ങൾ ഇവിടെയായി വരുന്നു അതിനാൽ ഒരു കാറിനായി ഒരാൾക്ക് യഥാർത്ഥത്തിൽ വരയ്ക്കാനാകുന്നതിന്റെ ടോപ് വ്യൂ ഈ ദിശയിൽ വരുമായിരുന്നു രണ്ടാമത്തെ ടിപ്പ് ഉള്ളതായി കാണാം അത് അതുവഴി കടന്നുപോയി അവിടെ വരുന്നു അവിടെ ഈ രേഖകൾ അതിനോട് യോജിക്കുന്നു വീണ്ടും ഈ രേഖകൾ ആ രീതിയിൽ യോജിക്കും അതിനാൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഇതാണ് ഫ്രന്റ് വ്യൂ നമുക്ക് അവിടെ കാണാനാകും ഈ അവശേഷിക്കുന്ന ഭാഗം ടോപ് വ്യൂവിൽ അതിനാൽ നമ്മൾ അതിലേക്കു നോക്കുകയാണെങ്കിൽ ഈ ദിശയിൽ ഒരു ഫ്രന്റ് വ്യൂ ആയി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആകൃതി വരുന്നത് ഈ രീതിയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുചെയ്യണം ഈ വൃത്തം ദൃശ്യമായിരിക്കും എന്നിരുന്നാലും പുറകിൽ നിന്ന് കാണാനാകാത്ത ഈ രേഖ നമ്മൾ മറഞ്ഞിരിക്കുന്ന രേഖ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വൃത്തവും ദൃശ്യമായിരിക്കുന്നതല്ല അതിനാൽ നമുക്ക് വീണ്ടും ഡാഷ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ മറഞ്ഞിരിക്കുന്ന ഒന്നും രണ്ടും രേഖകൾ നമുക്ക് അവിടെ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് ഇനി ഇതാണ് നമ്മൾ വ്യൂ ആയി തെരഞ്ഞെടുക്കുന്നതെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒരു രേഖ മാത്രമേയുള്ളൂ അതിനാൽ ടിപ്പ് ആയി തിരഞ്ഞെടുക്കുന്നതാണ് അടിസ്ഥാന നടപടിക്രമം രണ്ടാമത്തെ ടിപ്പ് ആയി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സമീപത്തുളള വ്യൂ ഈ ദിശയിലാകാം അത് ആ ദിശയിലും ആകാം വീണ്ടും മറഞ്ഞിരിക്കുന്ന രേഖകളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം എന്ന അതേ കാര്യം തന്നെ ഇതാണ് നമ്മൾ എടുക്കുന്ന ഫ്രന്റ് വ്യൂ ഇതാണോ അല്ലെങ്കിൽ ഇതാണോ നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നോക്കാം നമ്മൾ ഇത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ നിലയിലും വീണ്ടും ആ നിലയിലും മറഞ്ഞിരിക്കുന്ന രേഖകൾ വരുന്നു അതിനാൽ ഈ വ്യൂവിൽ മറഞ്ഞിരിക്കുന്ന രണ്ട് വരികൾ ഉണ്ട് വ്യൂവിനായി ആയി ഇതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനാൽ ഇത് ഉപയോഗിക്കരുത് അതുപോലെ വീണ്ടും ബോട്ടം വ്യൂ ഉപയോഗിക്കണോ എന്ന കാര്യത്തിലും മറഞ്ഞിരിക്കുന്ന രേഖകളുടെ എണ്ണം ഏറ്റവും കുറവുള്ളത് നമ്മൾ ഉപയോഗിക്കണം അതിനാൽ നമ്മൾ ഈ വ്യൂ ഇതും മറഞ്ഞിരിക്കുന്നു അതിനാൽ നമ്മൾ ഇതിനെ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ മറഞ്ഞിരിക്കുന്ന രണ്ട് രേഖകൾ ഉണ്ട് ഒരു മറഞ്ഞിരിക്കുന്ന രേഖ

അതിനാൽ നമ്മൾ ഈ വ്യൂ എണ്ണം കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിനാൽ നമ്മൾ സ്വാഭാവികമായും ഫ്രണ്ട് വ്യൂ നിന്ന് നോക്കിയാൽ ഇത് ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരമാണോ ദീർഘവൃത്താകൃതിയിലുള്ള ദ്വാരമാണോ എന്നും ഏത് തലത്തിലാണ് ഇത് സ്ഥിതിചെയ്യുന്നതെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അതിനാൽ എല്ലാ വിവരങ്ങളും നമ്മളുടെ ഫ്രന്റ് വ്യുവും നിന്ന് നമുക്ക് ലഭിക്കും ഈ വസ്തുവിന്റെ കാര്യമോ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഒന്നാമതായി ഗ്ലാസ് ബോക്സിൽ നമുക്ക് നിർമ്മിക്കാം ഈ വ്യൂസ് നമ്മൾ ആ ദിശയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും അങ്ങനെ തോന്നുന്നു ഇവിടെ എല്ലാ അളവുകൾക്കും വേണ്ടത്ര ഇടമില്ല അത് ഉചിതമായി കാണിക്കുവാനാകുന്ന ഒരു സ്ഥിതിയിലായിരിക്കില്ല നമ്മൾ അതിനുപകരം നമുക്ക് എന്തുചെയ്യാൻ കഴിയുമായിരുന്നു ഇത് ഫ്രണ്ട് വ്യൂ കാണിക്കാമായിരുന്നു അതിനാൽ സൈഡ് വ്യൂ സ്ഥാനം വ്യക്തമായി കാണിക്കുന്നു മാത്രമല്ല നമുക്ക് ഒരുതരം തള്ളി നിൽക്കുന്ന ഭാഗമുണ്ടെന്ന് ഇത് കാണിക്കുന്നു അതിനാൽ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒരു നല്ല പ്രാതിനിധ്യ മാർഗമാണ് അതുപോലെ നമുക്ക് ആ ദിശയിലും ഫ്രന്റ് വ്യൂ ആയി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടെ ഇതിനെ നമ്മൾ ഫ്രന്റ് വ്യൂ ശേഷം അതിന്റെ വശത്തുനിന്നും നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഇതായിരിക്കും അതിനാൽ ഈ ക്ലാസിന്റെ അവസാനം നിങ്ങൾ വസ്തുവിനെ അടിസ്ഥാനമാക്കി ഈ ഉദാഹരണങ്ങൾ ഊഹിക്കണം ഏതെങ്കിലും ഒരു വസ്തു തിരഞ്ഞെടുക്കുക ഒരുപക്ഷേ ഒരു മൌസ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേന അല്ലെങ്കിൽ ഒരു ഡ്രോയിംഗ് ഷീറ്റ് സ്കെയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനെ മറ്റൊരു തരത്തിലുള്ള ക്രമീകരണത്തിൽ സൂക്ഷിക്കുക ശേഷം ഫ്രന്റ് വ്യൂ രീതി ഉപയോഗിച്ച് ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുക ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം